ഹലോ സുഹൃത്തുക്കളെ അടിസ്ഥാന തെർമോഡൈനാമിക്സിന്റെ തത്ത്വങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുന്ന ഈ പ്രത്യേക ആഴ്ചയിലെ മൂന്നാമത്തെ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം തുടർന്നുള്ള ആഴ്ചകളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാവുന്ന ആശയം സജ്ജീകരിക്കുന്നതിനെ കേന്ദ്രീകരിച്ച് ഉള്ള പ്രഭാഷണം ആണ് ഇത് ഇപ്പോൾ ഒന്നും രണ്ടും പ്രഭാഷണങ്ങളിൽ തെർമോഡൈനാമിക് സിസ്റ്റം പ്രോപ്പർട്ടി സ്റ്റേറ്റ് സന്തുലിതാവസ്ഥ തുടങ്ങിയ അടിസ്ഥാനപരമായ ചില വശങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു ആദ്യത്തെ ആഴ്ചയിലോ ആദ്യത്തെ പ്രഭാഷണത്തിലോ തെർമോഡൈനാമിക്സിന്റെ വ്യത്യസ്ത നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു തെർമോഡൈനാമിക്സിന്റെ സീറോത്ത് നിയമത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു അത് താപനില എന്ന പ്രോപ്പർട്ടിയുടെ ആശയം നമുക്ക് നൽകി മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ തെർമോഡൈനാമിക്സിന്റെ ഒന്നും രണ്ടും നിയമം പരാമർശിച്ചു ഇപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമത്തിൽ നിന്ന് ആന്തരിക ഊർജ്ജം അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ മൊത്തം ഊർജ്ജം ഒരു പ്രോപ്പർട്ടി ആണ് എന്ന ആശയം ലഭിച്ചു ക്ലോസ്ഡ് ഉം ഓപ്പണും സിസ്റ്റത്തിന്റെ വിശകലനത്തിനായി ആദ്യത്തെ നിയമ തത്വം എങ്ങനെ പ്രയോഗിക്കാമെന്നും നമ്മൾ കണ്ടു രണ്ടാമത്തെ നിയമവും അവതരിപ്പിക്കപ്പെട്ടു അവിടെ സാധാരണയായി നമ്മൾ രണ്ട് വ്യത്യസ്ത പ്രസ്താവനകളെക്കുറിച്ച് സംസാരിക്കുന്നു കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത് ഹീറ്റ് എഞ്ചിനുകൾക്ക് അനുയോജ്യമായ ഒന്നാണ് അതേസമയം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് പമ്പുകൾക്കും റഫ്രിജറേറ്ററുകൾക്കും അല്ലെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകൾ ഇപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം പിന്തുടരുന്ന ഒരു സിസ്റ്റത്തിന്റെ വിശകലനം തികച്ചും നേരെയാണെങ്കിലും സിസ്റ്റത്തിലേക്ക് വരുന്നതോ സിസ്റ്റത്തിൽ നിന്ന് പുറത്തുപോകുന്നതോ ആയ ഊർജ്ജത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കായി നാം പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു തരത്തിൽ സിസ്റ്റത്തിലും സറൌണ്ടിങ്ങിലും ഏതു തരാം എനർജി ഇന്ററാക്ഷസ് നടന്നാലും നമുക്ക് പറയാൻ കഴിയും അതിന്റെ ഒരു ബാലൻസ് മാത്രമേ നമ്മൾ എടുക്കാവൂ അത് സിസ്റ്റത്തിന്റെ മൊത്തം ഊർജ്ജ ഉള്ളടക്കത്തിലെ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ആശയം നൽകും എന്നിരുന്നാലും തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിന് നമുക്ക് അത്തരം നേരായ സമീപനമില്ല നമുക്ക് സാധാരണയായി രണ്ട് തരത്തിലുള്ള സമീപനങ്ങളുണ്ട് ഒന്ന് എൻട്രോപ്പി എന്ന് വിളിക്കുന്ന പ്രോപ്പർട്ടിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മറ്റൊന്ന് എക്സർജി എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ എൻട്രോപ്പിയെക്കുറിച്ച് സംസാരിക്കാനും എൻട്രോപ്പി എന്ന പ്രോപ്പർട്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും ഒരു സിസ്റ്റത്തിനായി എൻട്രോപ്പി എങ്ങനെ കണക്കാക്കാമെന്ന് കാണാനും പോകുന്നു അടുത്ത പ്രഭാഷണത്തിൽ അതായത് ഈ ആഴ്ചയിലെ നാലാമത്തേതും അവസാനത്തേതുമായ ഒരു പ്രഭാഷണത്തിൽ ഞാൻ എക്സർജി എന്ന പ്രോപ്പർട്ടി അവതരിപ്പിക്കും തുടർന്ന് എക്സർജി സമീപനത്തെ അടിസ്ഥാനമാക്കി തെർമോഡയനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തെ പിന്തുടർന്ന് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നമ്മൾ കാണും അതിനാൽ എൻട്രോപ്പിയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചയിൽ നിന്ന് ആരംഭിക്കാം ഇപ്പോൾ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ തെർമോഡൈനാമിക്സിന്റെ രണ്ട് വ്യത്യസ്ത പ്രസ്താവനകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടു ഏത് തരത്തിലുള്ള സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം പ്രസ്താവനകൾ തികച്ചും വ്യത്യസ്തമായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവ യഥാർത്ഥത്തിൽ പരസ്പരം തുല്യമാണെന്ന് നമ്മൾക്കറിയാം അതായത് കെൽവിൻ പ്ലാങ്ക് പ്രസ്താവനയുടെ ഏതെങ്കിലും ലംഘനം ക്ലോഷ്യസ് പ്രസ്താവനയുടെ ലംഘനത്തിലേക്ക് നയിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചും അത് എങ്ങനെ തെളിയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ തെർമോഡൈനാമിക്സ് പുസ്തകം റഫർ ചെയ്യാം ഇപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ പദം ഒരു കൊറോളറിയായി അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിന്റെ അനന്തരഫലമായി വരുന്ന റിവേർസിബിൾ പ്രക്രിയ ആണ് ഇപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് എന്നത് സറൌണ്ടിങ്ങിൽ ഒരു തെളിവും നൽകാതെ പൂർണ്ണമായും പഴയപടിയാക്കാൻ കഴിയുന്ന ഒരു പ്രക്രിയയെ സൂചിപ്പിക്കുന്നു അതിനർത്ഥം സറൌണ്ടിങ്ങിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു പ്രക്രിയയുടെ ദിശ മാറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അടിസ്ഥാന പ്രോപ്പർട്ടി ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഡയഗ്രം വരയ്ക്കുന്നുവെന്ന് പറയട്ടെ അവിടെ നമ്മൾ ചില പ്രോപ്പർട്ടികൾ a1 a2 എന്നിവ ഉപയോഗിക്കുന്നു ഈ a1 a2 എന്നിവ പ്രഷറും സ്പെസിഫിക് വോളിയവും പ്രഷറും ഊഷ്മാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്പോലെ നമ്മുടെ ഇഷ്ടാനുസരണം ഉണ്ടാകാം ഇത് നമ്മുടെ പ്രാരംഭ പോയിന്റ് 1 ആണെന്നും ഇത് സ്റ്റേറ്റ് പോയിന്റ് 2 ആണെന്നും നമുക്ക് പറയാം അതിനാൽ ഇത് നമ്മുടെ സ്റ്റേറ്റ് പോയിന്റ് 1 ഉം സ്റ്റേറ്റ് പോയിന്റ് 2 ഉം ആണ് അതിനാൽ ഇതുപോലുള്ള ഒരു പ്രക്രിയയാണ് നടന്നത് അതിനാൽ പ്രോസസ്സ് സമയത്ത് എല്ലാ പ്രോപ്പർട്ടികളും മാറിക്കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും സ്റ്റാൻഡേർഡ് എക്സ്ടെൻസിവ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിന് X പ്രോസസ്സ് സമയത്ത് ഈ എക്സ്ടെൻസിവ് പ്രോപ്പർട്ടിയിലെ മാറ്റം ഇപ്രകാരമായിരിക്കും കൂടാതെ ഈ പ്രക്രിയയ്ക്കിടയിൽ സിസ്റ്റവും സറൌണ്ടിങ്ങും തമ്മിൽ ചില ഇന്ററാക്ഷൻസ് നടക്കുന്നു ഇത് നമ്മുടെ സിസ്റ്റമാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഈ ഫോർവേർഡ് പ്രക്രിയയ്ക്കിടെ സിസ്റ്റത്തിന് ചുറ്റുമുള്ളവയിൽ നിന്ന് ഈ താപം δQ ലഭിക്കുകയും ഈ വർക്ക് ഔട്ട്പുട്ട് δW നൽകുകയും ചെയ്യുന്നു അതിനാൽ ഈ പ്രക്രിയ 1 മുതൽ 2 വരെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഈ പ്രക്രിയ 1 മുതൽ 2 വരെ പഴയപടിയാക്കാവുന്ന ഒന്നാണെങ്കിൽ നമുക്ക് അതിന്റെ ദിശ മാറ്റാൻ കഴിയും അതുവഴി ഈ അന്തിമ അവസ്ഥ എന്ന് വിളിക്കപ്പെടുന്നതിൽ നിന്ന് ഒരു അടയാളവും സറൌണ്ടിങ്ങിൽ അവശേഷിപ്പിക്കാതെ പ്രാരംഭ അവസ്ഥയിലേക്ക് മടങ്ങും നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 1 മുതൽ 2 വരെ ഉള്ള പോയിന്റുകൾ അതേപടി നിലനിൽക്കുമ്പോൾ നമ്മൾ അതേ പാത പിന്തുടരും എന്നാൽ ഇപ്പോൾ ദിശ 2 ൽ നിന്ന് 1 ലേക്ക് തിരിച്ച് പോകും ഇപ്പോൾ പ്രോപ്പർട്ടികളിലെ മാറ്റത്തെക്കുറിച്ച് എന്താണ് പ്രോപ്പർട്ടികൾ പോയിന്റ് ഫംഗ്ഷനുകളാണ് അതായത് പ്രക്രിയയുടെ സ്വഭാവം എന്തുതന്നെ ആയാലും പ്രോപ്പർട്ടിയിലെ അന്തിമ മാറ്റം എല്ലായ്പ്പോഴും സമാനമായിരിക്കും രണ്ടാമത്തെ പ്രക്രിയയിൽ അതെ പ്രോപ്പർട്ടിയിലെ മാറ്റം X വീണ്ടും പ്രോപ്പർട്ടീസ് പോയിന്റ് ഫംഗ്ഷനുകളായതിനാൽ അവയെക്കുറിച്ച് നമ്മൾ കാര്യമാക്കേണ്ടതില്ല എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് സറൌണ്ടിങ്ങിൽ തെളിവുകളുടെ ഒരു സൂചനയും നൽകാതെ അല്ലെങ്കിൽ സറൌണ്ടിങ്ങിൽ അടയാളപ്പെടുത്താതെ നടക്കുന്ന ഏത് ഇടപെടലുകളുടെയും അടിസ്ഥാനത്തിൽ ആണ് അതായത് ചുറ്റുപാടിൽ ഒരു അടയാളവും നൽകാതെ പ്രക്രിയ പൂർണ്ണമായും പഴയപടിയാക്കേണ്ടതുണ്ടെങ്കിൽ അത് അതേ പ്രക്രിയയായിരിക്കും ആദ്യ സന്ദർഭത്തിൽ നമ്മൾ 1 മുതൽ 2 വരെ നീങ്ങി ഇപ്പോൾ നമ്മൾ 2 മുതൽ 1 വരെ തിരിച്ച് ഈ പ്രക്രിയ പൂർണ്ണമായും പഴയപടിയാക്കാനാണ് പോകുന്നത് രണ്ടാമത്തെ പ്രക്രിയയിൽ സിസ്റ്റം അതേ അളവിൽ താപം δQ നിരസിക്കണം സറൌണ്ടിങ്ങിൽ നിന്ന് കൃത്യമായി ഒരേ അളവിലുള്ള വർക്ക് δW ലഭിക്കുന്നു ഫോർവേഡ് പ്രോസസ്സ് 1 മുതൽ 2 വരെ നടന്ന ഊർജ്ജ പ്രതിപ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും ബാക്ക്വേർഡ് പ്രക്രിയയിൽ നമുക്ക് ഊർജ്ജ പ്രതിപ്രവർത്തനങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാനും അതുവഴി സിസ്റ്റത്തെയും സറൌണ്ടിങ്ങിനെയും അതിന്റെ പ്രാരംഭ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിയും എന്തെങ്കിലും മാസ് ട്രാൻസ്ഫർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം δm പിണ്ഡത്തിന്റെ അളവും ഫോർവേഡ് പ്രോസസ്സിനിടെ നീങ്ങി എന്ന് തുടർന്ന് റിവേഴ്സ് പ്രക്രിയയിൽ അതേ അളവ് അതായത് δm പിണ്ഡത്തിന്റെ അളവ് സിസ്റ്റത്തിൽ നിന്ന് സറൌണ്ടിങ്ങിലേക്ക് തിരികെ പോകണം അതിനാൽ നമ്മൾ 2 മുതൽ 1 വരെ തിരിച്ച് പോകുന്ന റിവേഴ്സ് പ്രക്രിയ നടത്തുമ്പോൾ സിസ്റ്റം എല്ലായ്പ്പോഴും പുന സ്ഥാപിക്കപ്പെടുന്നു കാരണം നമ്മൾ പ്രാരംഭ പോയിന്റിലേക്ക് മടങ്ങിയതിനാൽ എല്ലാ സിസ്റ്റം പ്രോപ്പർട്ടികളും അതിന്റെ പ്രാരംഭ മൂല്യത്തിലേക്ക് മടങ്ങും എന്നിരുന്നാലും പ്രക്രിയ പഴയപടിയാക്കുന്നില്ലെങ്കിൽ സറൌണ്ടിങ്ങും പുനസ്ഥാപിക്കപ്പെടില്ല കാരണം ഫോർവേർഡ് പ്രോസസ്സിനെക്കുറിച്ച് ചിന്തിക്കുക ആ മാസ്സ് ട്രാൻസ്ഫറിനെ നമ്മൾ ഈ നിമിഷം അവഗണിക്കുകയാണെങ്കിൽ സിസ്റ്റത്തിന് ലഭിച്ച നെറ്റ് എനർജി എത്രയാണ് അതിനാൽ സിസ്റ്റത്തിനായുള്ള δE ഇപ്രകാരമാണ് ഇവിടെ δQ എന്നത് ലഭിച്ച താപത്തിന്റെ അളവാണ് δW എന്നത് നൽകിയ വർക്കിന്റെ അളവാണ് ഇപ്പോൾ δE സറൌണ്ടിങ്ങിനു അത് എത്രയാണ് കേവലം രണ്ട് സിസ്റ്റങ്ങളാണുള്ളതെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഒന്നാമത്തേത് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്നു മറ്റേത് സറൌണ്ടിങ് അപ്പോൾ സറൌണ്ടിങ്ങിന്റെ ഊർജ്ജ പ്രതിപ്രവർത്തനം എത്രയാണ് ഇത് ഇനിപ്പറയുന്ന രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ നമ്മൾ ഈ റിവേഴ്സ് പ്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ സിസ്റ്റം അതിന്റെ പ്രാരംഭ നിലയിലേക്ക് മടങ്ങിവരുന്നു അതിനാൽ എല്ലാ സിസ്റ്റം പ്രോപ്പർട്ടികളും പുനസ്ഥാപിക്കപ്പെടുന്നു എന്നിരുന്നാലും സറൌണ്ടിങ്ങിനെയും അതിന്റെ പ്രാരംഭ അവസ്ഥയിലേക്ക് പുനസ്ഥാപിക്കാൻ സറൌണ്ടിങ്ങിൽ നിന്ന് ഈ താപം നാം എടുത്തുകളയണം അതിനാൽ റിവേഴ്സ് പ്രക്രിയയിൽ സറൌണ്ടിങ്ങിലുള്ള ഊർജ്ജ പ്രതിപ്രവർത്തനം അതുവഴി സറൌണ്ടിങ്ങും പുനസ്ഥാപിക്കുന്നു അതിനാൽ റിവേഴ്സ് പ്രോസസ്സ് സമയത്ത് സിസ്റ്റവും സറൌണ്ടിങ്ങും അതിന്റെ പ്രാരംഭ അവസ്ഥയിലേക്ക് പുനസ്ഥാപിക്കുമ്പോൾ മാത്രമേ സിസ്റ്റം പഴയപടിയാക്കാനാകൂ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അല്ലെങ്കിൽ അത് പഴയപടിയാക്കാവുന്ന ഒന്നല്ല സിസ്റ്റം പ്രാരംഭ അവസ്ഥയിലേക്ക് പുനസ്ഥാപിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും സാധാരണമായ സാഹചര്യം പക്ഷേ സറൌണ്ടിങ് അങ്ങനെ ചെയ്യുന്നില്ല അതുവഴി പ്രക്രിയ പഴയപടിയാക്കാനാകില്ല നമ്മൾ അതിനെ ഇർറിവേഴ്സിബിൾ പ്രക്രിയ എന്ന് വിളിക്കുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രായോഗിക പ്രക്രിയകളും ഇർറിവേഴ്സിബിൾ ആണ് കാരണം ഈ പ്രത്യേക അവസ്ഥയ്ക്ക് സറൌണ്ടിങ്ങിൽ അടയാളങ്ങളോ തെളിവുകളോ അവശേഷിപ്പിക്കാതെ തന്നെ ഇത് നേടാൻ വളരെ പ്രയാസമാണ് നമുക്ക് ഒരു കപ്പ് ചായ എടുക്കാം അതിനാൽ നമ്മൾ ഒരു കപ്പ് ചായ എടുത്തു കുറച്ച് ചായ നിറച്ച ഒരു പേപ്പർ കപ്പ് നമ്മുടെ പക്കലുണ്ടെന്ന് പറയട്ടെ ഇപ്പോൾ ഞാൻ ആ കപ്പ് തറയിലേക്ക് ഇട്ടു അതിനാൽ ഞാൻ കപ്പ് തറയിലേക്ക് വലിച്ചെറിയുമ്പോൾ എന്തുസംഭവിക്കും കപ്പിൽ ഉണ്ടായിരുന്ന ചായയോ ദ്രാവകമോ എല്ലായിടത്തും തെറിച്ചുവീഴുന്നു അതായത് തറയിൽ വീണതും ചുറ്റും ചിതറിയ തുള്ളികളും ഉണ്ടാകാം അതിനാൽ ഇപ്പോൾ ആ പ്രക്രിയയെ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തുസംഭവിക്കണം ഇപ്പോൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന ചായ വീണ്ടും കപ്പിലേക്ക് വരണം ചായ നിറച്ച പാനപാത്രം എന്റെ കൈയിലേക്ക് തിരികെ വരണം ഇപ്പോൾ അത് പ്രായോഗികമായി തികച്ചും അസാധ്യമാണെന്ന് തോന്നുന്നു അതിനാലാണ് റിവേർസിബിൾ പ്രോസസ്സ് എന്ന ഈ പദം ഒരു ആദർശവൽക്കരണം മാത്രമാണ് എല്ലാ യഥാർത്ഥ പ്രക്രിയകളും ഇർറിവേഴ്സിബൽ ആണ് യഥാർത്ഥ പ്രക്രിയകളൊന്നും പഴയപടിയാക്കാനാവില്ലെന്ന് സൂചിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പദത്തോട് ഇത്രയധികം താൽപര്യം കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് അത് തെളിയിക്കാനാകും നിങ്ങളുടെ അടിസ്ഥാന തെർമോഡൈനാമിക്സിൽ ഒരു ഹീറ്റ് എഞ്ചിൻ റിവേർസിബിൾ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോഴെല്ലാം രണ്ട് ഒരേ പോലുള്ള റിസെർവോയറുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ എഞ്ചിനുകളിൽ വെച്ച് ഏറ്റവും ഉയർന്ന വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ ഒരു കംപ്രസ്സർ അല്ലെങ്കിൽ പമ്പ് പോലുള്ള ഊർജ്ജം ആഗിരണം ചെയ്യുന്ന ഉപകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റിവേർസിബിൾ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിൻവർക്ക് ഉപയോഗിച്ചാൽ നമ്മൾ ഒരു റിവേർസിബിൾ പ്രക്രിയയിൽ പ്രവർത്തിക്കുമ്പോൾ അതേ രണ്ട് റിസെർവോയറുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ റിവേഴ്സ്ഡ് എഞ്ചിനുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ട് അത് ഉപയോഗിക്കും അതിനാൽ നമ്മൾ രണ്ടു റിസെർവോയറുകൾ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽഅതായതു പ്രവർത്തനത്തിന് വേണ്ട അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒരു റിവേർസിബിൾ ഹീറ്റ് എഞ്ചിന് നിങ്ങൾക്ക് സാധ്യമായ പരമാവധി വർക്ക് ഔട്ട്പുട്ട് ലഭിക്കാൻ പോകുന്നു ഒപ്പം റിവേർസിബിൾ ഹീറ്റ് പമ്പിൽ നിന്നോ റഫ്രിജറേറ്ററിൽ നിന്നോ നമുക്ക് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വർക്ക് ഇൻപുട്ട് നൽകേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എല്ലായ്പ്പോഴും നേടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അനുയോജ്യമായ പ്രക്രിയയാണിത് അതുകൊണ്ടാണ് ഒരു റിവേർസിബിൾ പ്രക്രിയയിൽ നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കുന്നത് കാരണം റിവേർസിബിൾ പ്രോസസ്സ് ഹീറ്റ് എഞ്ചിനുകളുടെയും റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകളുടെയും കാര്യത്തിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഉയർന്ന പരിധി സജ്ജമാക്കുന്നു എന്നാൽ പ്രായോഗികമായി നിരവധി തടസ്സങ്ങളുണ്ട് അതിനാൽ ഒരു പ്രക്രിയയ്ക്ക് റിവേർസിബിൾ സ്വഭാവത്തിൽ നിന്ന് മാറാൻ കഴിയും ഏറ്റവും സാധാരണമായ കാരണം ഘർഷണം ആണ് കാരണം ഘർഷണം ഒരുതരത്തിലും മാറ്റാനാവാത്തതാണ് ഇതുപോലെ ഞാൻ എന്റെ വലതു കൈ ഇടത് കൈയിലേക്ക് മാറ്റുന്നു എന്ത് സംഭവിക്കും ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരുതരം ഘർഷണം നടക്കുന്നുണ്ട് അതിനാൽ കുറച്ച് ഊർജ്ജം നഷ്ടപ്പെടുന്നു അതിനാൽ ഈ പ്രവർത്തനം പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് സംഭവിക്കണം സംഘർഷം കാരണം എനിക്ക് നഷ്ടപ്പെട്ട ഊർജ്ജം എന്തുതന്നെയായാലും അത് ഒടുവിൽ ചൂടിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും അത് എന്റെ കൈയിലേക്ക് മടങ്ങുകയും അതുവഴി എന്റെ കൈയെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുപോകുകയും ചെയ്യും എന്നാൽ അത് ഒരിക്കലും സാധ്യമല്ല കാരണം കൈ ഈ ദിശയിലേക്ക് നീങ്ങുമ്പോഴെല്ലാം ഘർഷണം ചലനത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ ഞാൻ യഥാർത്ഥ സ്ഥാനത്തേക്ക് കൈ നീക്കുമ്പോൾ വീണ്ടും ഘർഷണം ചലനത്തെ എതിർക്കുന്നു ഇത് എല്ലായ്പ്പോഴും ചലനത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ആ അനുബന്ധ മെക്കാനിക്കൽ ഊർജ്ജം അല്ലെങ്കിൽ നഷ്ടപ്പെട്ട മെക്കാനിക്കൽ ഊർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുകയും അതുവഴി നഷ്ടപ്പെട്ട ഊർജ്ജം വീണ്ടെടുക്കാൻ സാധ്യമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഇറവെർസിബിലിറ്റിയുടെ ഏറ്റവും വലിയ ഉറവിടം ഘർഷണം ആണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ലാത്തതോ കംപ്രസ്സുചെയ്യാത്തതോ അല്ലെങ്കിൽ ചില വാതകങ്ങളുടെ അനിയന്ത്രിതമായ വികാസമോ സംഭവിക്കാം വളരെ നിർദ്ദിഷ്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് ലഭിച്ചേക്കാം എന്നാൽ മൂന്നാമത്തേത് വീണ്ടും വളരെ സാധാരണമായ ഒരു ഉറവിടമാണ് പരിമിതമായ താപനില വ്യത്യാസത്തിലൂടെ താപ കൈമാറ്റം സംഭവിക്കുന്നു തെർമോഡയനാമിക്സിന്റെ രണ്ടാമത്തെ നിയമത്തിലെ ക്ലോഷ്യസ് പ്രസ്താവനയിൽ നിന്ന് ഉയർന്ന താപനിലയിലുള്ള ബോഡിയിൽ നിന്ന് കുറഞ്ഞ താപനിലയിലുള്ള ബോഡിയിലേക്ക് മാത്രമേ താപത്തിന് സഞ്ചരിക്കാൻ കഴിയൂ എന്ന് നമുക്കറിയാം ഏതെങ്കിലും തരത്തിലുള്ള താപ കൈമാറ്റം നടത്താൻ രണ്ട് വസ്തുക്കൾ തമ്മിൽ നമുക്ക് ഒരു നിശ്ചിത അളവിൽ താപനില വ്യത്യാസം ആവശ്യമാണ് രണ്ട് വസ്തുക്കളും ഒരേ താപനിലയിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള താപ കൈമാറ്റം നടത്താൻ കഴിയില്ല കാരണം താപ കൈമാറ്റത്തിന് അതിന്റെ ഡ്രൈവിംഗ് പൊട്ടൻഷ്യലായി താപനില വ്യത്യാസം ആവശ്യമാണ് താപനില ഒന്നുതന്നെയാണെങ്കിൽ ഡ്രൈവിംഗ് പൊട്ടൻഷ്യൽ ഇല്ലാത്തതിനാൽ താപ കൈമാറ്റം ഉണ്ടാകില്ല എന്നിരുന്നാലും ഉയർന്ന താപനിലയിലുള്ള വസ്തുവിൽ നിന്ന് കുറഞ്ഞ താപനിലയിലുള്ള വസ്തുവിലേക്ക് മാത്രമേ താപം ഒഴുകുകയുള്ളൂ ഇതിന് വിപരീതം അസാധ്യമാണ് അതിനാൽ അതും ഒരുതരം ഇറവെർസിബിലിറ്റി ആണ് ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഘർഷണവും അനിയന്ത്രിതമായ വികാസവും അല്ലെങ്കിൽ പ്രാഥമികമായി ഘർഷണവുംസാധാരണയായി ആന്തരിക ഇറവെർസിബിലിറ്റിയുടെ കാരണങ്ങളായി അറിയപ്പെടുന്നു അതിനർത്ഥം സിസ്റ്റം ഘർഷണരഹിതവും അതുപോലെ അനിയന്ത്രിതമായ വികാസവുമില്ലെങ്കിൽ സിസ്റ്റത്തെ നമുക്ക് ഇന്റെർണലി റിവേഴ്സിബൽ എന്ന് വിളിക്കാം അതുപോലെ പരിമിതമായ താപനില വ്യത്യാസത്തിലൂടെ താപ കൈമാറ്റം നടക്കാത്തപ്പോൾ സിസ്റ്റത്തെ നമ്മൾ എകസ്റ്റെർണലി റിവേഴ്സിബൽ എന്ന് വിളിക്കുന്നു ഒരു സിസ്റ്റത്തിന് ആന്തരികമായി പഴയപടിയാക്കാനാകുമെങ്കിലും ബാഹ്യമായി മാറ്റാൻ കഴിയാത്തതും അതുപോലെ തന്നെ ഒരു സിസ്റ്റം ആന്തരികമായി തിരിച്ചെടുക്കാനാകാത്തതും ഘർഷണത്തിന്റെ സാന്നിധ്യം കാരണം ബാഹ്യമായി പഴയപടിയാക്കാവുന്നതുമാണ് നമുക്ക് ഈ ഉദാഹരണം ഇവിടെ എടുക്കാം അതിനാൽ ഇവിടെ എനിക്ക് 20 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇപ്പോൾ സറൌണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് കുറച്ചു താപം റിവേഴ്സിബൽ രീതിയിൽ കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സറൌണ്ടിങ്ങും അതെ താപനിലയിലായിരിക്കണം പക്ഷേ സറൌണ്ടിങ് അതേ താപനിലയിലാണെങ്കിൽ താപ കൈമാറ്റം ഉണ്ടാകില്ല അതിനാൽ സറൌണ്ടിങ് സിസ്റ്റത്തേക്കാൾ വളരെ ചെറിയ താപനില വ്യത്യാസത്തിലാണ് എന്ന് അനുമാനിക്കാം അതുവഴി ഈ താപ കൈമാറ്റം സാധ്യമാക്കുന്നു അതിനാൽ സിസ്റ്റവും സറൌണ്ടിങ്ങും തമ്മിലുള്ള ചെറിയ താപനില വ്യത്യാസം കാരണം ഇവിടെ താപ കൈമാറ്റം നടക്കുന്നു അതിനാൽ ഇത് പൂർണ്ണമായും റിവേഴ്സിബൽ പ്രക്രിയയാണ് തീർച്ചയായും ഒരു ഘർഷണവും ഇല്ലെന്ന് കരുതുക അത് ബാഹ്യമായി പഴയപടിയാക്കാനാകും ഇപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ ഇവിടെ സറൌണ്ടിങ് വളരെ ഉയർന്ന താപനിലയിൽ ആണ് സിസ്റ്റവും സറൌണ്ടിങ്ങും തമ്മിൽ വ്യക്തമായ താപനില വ്യത്യാസമുണ്ട് എന്നിരുന്നാലും സിസ്റ്റത്തിന്റെ താപനില എല്ലായിടത്തും തുല്യമാണ് അതായത് സിസ്റ്റം തന്നെ താപ സന്തുലിതാവസ്ഥയിലാണ് ആന്തരികമായി റിവേഴ്സിബളും എന്നാൽ ബാഹ്യമായി ഇറവെർസിബളും ആയ പ്രക്രിയയുടെ അവസ്ഥയാണിത് കാരണം ഒരു വശത്ത് പരിമിതമായ താപനില വ്യത്യാസത്തിൽ 30 ᴏC മറുവശത്ത് 20 ᴏC ഒരു ചൂട് കൈമാറ്റം നടക്കുന്നു പരിമിതമായ താപനില വ്യത്യാസം 10 ᴏC ഉണ്ട് ഈ താപ കൈമാറ്റം പരിമിതമായ താപനില വ്യത്യാസം കാരണം സംഭവിക്കുന്നു അതിനാൽ സിസ്റ്റം ബാഹ്യമായി ഇറവെർസിബളും ആന്തരികമായി റിവേഴ്സിബളും ആകുന്നു ഘർഷണത്തിന്റെ സാന്നിധ്യം കാരണം ഒരു സിസ്റ്റം ആന്തരികമായി ഇറവെർസിബളും എന്നാൽ ബാഹ്യമായി റിവേഴ്സിബളും ആയ മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാനാകും എക്സ്റ്റെർണലി റിവേഴ്സിബൽ സാധ്യമാകുന്നത് എപ്പോഴാണ് എന്ന് വെച്ചാൽ വളരെ ചെറിയ താപനില വ്യത്യാസം കാരണം ഈ താപ കൈമാറ്റം നടക്കുമ്പോൾ അല്ലെങ്കിൽ താപ കൈമാറ്റം നടക്കാത്തപ്പോൾ താപ കൈമാറ്റം നടക്കാത്തപ്പോൾ ഈ പോയിന്റ് ഒരിക്കലും ചിത്രത്തിലേക്ക് വരില്ല അതിനാൽ അവിടെയും സിസ്റ്റം എക്സ്റ്റെർണലി റിവേഴ്സിബൽ ആകുന്നു അതിനാൽ ഒരു സിസ്റ്റം എക്സ്റ്റെർണലി റിവേഴ്സിബൽ ആകാൻ നമുക്ക് ഒന്നുകിൽ ഒരു അഡിയബാറ്റിക് പ്രക്രിയ ആവശ്യമാണ് അതായത് താപ കൈമാറ്റം ഇല്ല അല്ലെങ്കിൽ ഒരു ഐസോതെർമൽ താപ കൈമാറ്റ പ്രക്രിയ സിസ്റ്റവും സറൌണ്ടിങ്ങും ഒരേ താപനിലയിൽ ആയിരിക്കുന്ന സമയത്തു നടക്കുന്നു അത് നമ്മെ ഒരു റിവേഴ്സിബൽ സൈക്കിളിന്റെ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നു പ്രായോഗികമായി എല്ലാ പവർ ഉല്പാദന അല്ലെങ്കിൽ പവർ ഉപഭോഗ സംവിധാനങ്ങളും ചില സൈക്കിളുകളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതുവഴി ഒരേ പ്രവർത്തനം വളരെക്കാലം ആവർത്തിക്കാൻ കഴിയും റിവേർസിബിൾ പ്രോസസ്സിൽ നിന്ന് സാധ്യമായ ഏറ്റവും വലിയ വർക്ക് ഔട്ട്പുട്ട് നമ്മൾ നേടാൻ പോകുന്നതിനാൽ റിവേർസിബിൾ പ്രോസസ്സുകൾ ഉപയോഗിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സൈക്കിൾ സാധ്യമായ ഏറ്റവും വലിയ വർക്ക് ഔട്ട്പുട്ട് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് റിവേർസിബിൾ സൈക്കിളിനെക്കുറിച്ച് സംസാരിക്കാനുള്ള താൽപര്യം അതിനാൽ എല്ലാ ഘടക പ്രക്രിയകളും റിവേർസിബിൾ ആണെങ്കിൽ ഒരു സൈക്കിളിനെ റിവേർസിബിൾ എന്ന് വിളിക്കുന്നു അതായത് അവ ഘർഷണരഹിതമാണ് കൂടാതെ പ്രക്രിയകളിലൊന്നും പരിമിതമായ താപനില വ്യത്യാസത്തിൽ താപ കൈമാറ്റം ഉൾപ്പെടുന്നില്ല ഏറ്റവും സാധാരണയായി നമ്മൾ സംസാരിക്കുന്ന റിവേർസിബിൾ സൈക്കിൾ ഒരു കാർനോട്ട് സൈക്കിളാണ് ഇത് വീണ്ടും ഒരു ആദർശവൽക്കരണമാണ് എന്നാൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിവേർസിബിൾ സൈക്കിളുകളും സാധ്യമാണ് ഒരു കാർനോട്ട് സൈക്കിളിൽ സൈക്കിൾ രൂപീകരിക്കുന്നതിന് നമ്മൾ സാധാരണയായി നാല് പ്രക്രിയകൾ പരിഗണിക്കുന്നു പ്രോസസ് നമ്പർ 1 ഇത് ഈ പ്രക്രിയയിൽ നിന്നോ പോയിന്റ് 4 മുതൽ 1 വരെയോ ആണ് ഇത് ഒരു അഡിയബാറ്റിക് പ്രക്രിയയും ഘർഷണരഹിതമായ അഡിയബാറ്റിക് പ്രക്രിയയുമാണ് അതിനാൽ ഈ പ്രക്രിയയ്ക്കിടയിൽ ഇത് ഘർഷണരഹിതമായതിനാൽ ആന്തരികമായി റിവേഴ്സിബൽ ആണ് അതുപോലെ അഡിയബാറ്റിക് ആയതിനാൽ എക്സ്റ്റെർണലി റിവേഴ്സിബൽ ആണ് അതിനാൽ ഈ 4 മുതൽ 1 വരെ തികച്ചും റിവേഴ്സിബൽ പ്രക്രിയ ആണ് അല്ലെങ്കിൽ പൂർണ്ണമായും റിവേഴ്സിബൽ പ്രക്രിയയാണ് അടുത്ത പ്രക്രിയ 1 മുതൽ 2 വരെ 1 മുതൽ 2 വരെ ഒരു ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ പ്രക്രിയയെ സൂചിപ്പിക്കുന്നു അതിനാൽ QH അളവ് താപം സിസ്റ്റത്തിലേക്ക് ചേർക്കുന്നു ആ സമയത്ത് അത് TH ഊഷ്മാവിൽ സ്ഥിരമായി നിലനിൽക്കുന്നു 2 മുതൽ 3 വരെ വീണ്ടും ഒരു അഡിയബാറ്റിക് പ്രക്രിയയാണ് ഈ സമയത്ത് ഊഷ്മാവ് ഉയർന്ന താപനില TH ഇൽ നിന്ന് കുറഞ്ഞ താപനില TL ലേക്ക് കുറയുന്നു അതുപോലെ 3 മുതൽ 4 വരെ മറ്റൊരു ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ പ്രക്രിയയും അതിനാൽ ആദ്യ പ്രക്രിയ ഒരു അഡിയബാറ്റിക് ആണ് ഇത് ഒരു ഘർഷണരഹിതമായ അഡിയബാറ്റിക് ആണ് അതുപോലെ മൂന്നാമത്തേത് ഇത് ഒരു ഘർഷണരഹിതമായ അഡിയബാറ്റിക് പ്രക്രിയ കൂടിയാണ് ഈ രണ്ടാമത്തെ പ്രക്രിയ 1 മുതൽ 2 വരെ TH താപനിലയിൽ ചെയ്യുന്ന ഒരു ഐസോതെർമൽ പ്രക്രിയയാണ് അതുപോലെ ഈ നാലാമത്തെ പ്രക്രിയ 3 മുതൽ 4 വരെയുള്ളത് TL താപനിലയിൽ നടത്തുന്ന മറ്റൊരു ഐസോതെർമൽ പ്രക്രിയയാണ് ഈ സമയത്ത് QL താപം സറൌണ്ടിങ്ങിലേക്ക് നിരസിക്കപ്പെടുന്നു അതിനാൽ നമ്മൾ കാർനോട്ട് സൈക്കിളിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു കാർനോട്ട് സൈക്കിളിൽ സൈക്കിളിന്റെ കാര്യക്ഷമത എങ്ങനെ കണക്കാക്കാം അതിനാൽ ഏത് ഹീറ്റ് എഞ്ചിന്റെയും കാര്യക്ഷമത ഇങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ QH എന്നത് സിസ്റ്റത്തിലേക്ക് ചേർത്ത താപത്തിന്റെ അളവാണ് QL എന്നത് നിരസിച്ച താപത്തിന്റെ അളവാണ് ഏതൊരു ഹീറ്റ് എഞ്ചിനുകൾക്കും ഈ പദപ്രയോഗം ശരിയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ 'QLQH' നെ ഈ 'TLTH' എന്നതുമായി ഒരു ബന്ധം സ്ഥാപിക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് ഈ കാർനോട്ട് സൈക്കിളിന്റെ കാര്യക്ഷമതയെ താപനിലയുടെ കാര്യത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയൂ ഈ സാഹചര്യത്തിൽ രണ്ട് കാർനോട്ട് തത്വങ്ങൾ വരുന്നു ചിത്രത്തിലേക്ക് ആദ്യത്തെ കാർനോട്ട് തത്വം പറയുന്നത് ഒരു ഇറവെർസിബൽ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത എല്ലായ്പ്പോഴും രണ്ട് ഒരേപോലുള്ള റിസെർവോയറുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന റിവേർസിബിൾ ഹീറ്റ് എഞ്ചിന് തുല്യമാണ് ഇതിനർത്ഥം രണ്ട് റിസെർവോയറുകൾ ഒന്ന് TH താപനിലയിലും മറ്റൊന്ന് TL താപനിലയിലും അങ്ങനെ ഇത് രണ്ടിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഹീറ്റ് എഞ്ചിൻ ലഭിക്കുന്നു ഉയർന്ന താപനിലയിലുള്ള വസ്തുവിൽ നിന്നുള്ള QH താപം കുറഞ്ഞ താപനിലയിലുള്ള വസ്തുവിലേക്ക് QL നെ നിരസിക്കുകയും W അളവ് വർക്ക് സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക ഒരിക്കൽ ഈ രണ്ട് റിസെർവോയറുകളും നമ്മൾ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഹീറ്റ് എഞ്ചിന്റെ സ്വഭാവം എന്തുതന്നെ ആയാലും QH W QL എന്നിവയുടെ മൂല്യം എന്തുതന്നെ ആയാലും ഈ രണ്ട് റിസെർവോയറുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത ഇറവെർസിബിൾ ഹീറ്റ് എഞ്ചിനേക്കാൾ എല്ലായ്പ്പോഴും വലുതായിരിക്കും അതായത് റിവേർസിബിൾ ഹീറ്റ് എഞ്ചിൻ പരമാവധി കാര്യക്ഷമത നല്കുന്നു രണ്ടാമത്തെ കാർനോട്ട് തത്വം രണ്ട് ഒരേപോലുള്ള റിസെർവോയറുകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ റിവേർസിബിൾ ഹീറ്റ് എഞ്ചിനുകളുടെയും കാര്യക്ഷമതയെക്കുറിച്ച് സംസാരിക്കുന്നു അതിനർത്ഥം വീണ്ടും നമ്മൾ രണ്ട് റിസെർവോയർ ഫിക്സ് ചെയ്യുന്നു ഒന്ന് TH താപനിലയിലും മറ്റൊന്ന് TL താപനിലയിലും ഇപ്പോൾ നിങ്ങൾ രണ്ട് എഞ്ചിനുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ടും റിവേഴ്സിബിൾ ആണ് അതിനാൽ എഞ്ചിൻ 1 നിങ്ങൾക്ക് W അളവിൽ വർക്ക് ഔട്ട്പുട്ട് നൽകുന്നു എഞ്ചിൻ 2 നിങ്ങൾക്ക് W2 അളവിൽ വർക്ക് ഔട്ട്പുട്ട് നൽകുന്നു ഇവ രണ്ടും അതായത് 1 ഉം 2 ഉം റിവേഴ്സിബിൾ ആണ് പക്ഷെ ഇവയിൽ പല തരത്തിൽ ഉള്ള ഹീറ്റ് ഇന്ററാക്ഷൻ നടക്കുന്നതിനാൽ വ്യത്യസ്ത അളവിലുള്ള വർക്ക് ഉൽപ്പാദനം നടക്കുന്നു ഇപ്പോൾ രണ്ടാമത്തെ കാർനോട്ട് തത്ത്വം പറയുന്നത് എന്താണ് എന്ന് വച്ചാൽ ഒന്നാമത്തെന്റെ കാര്യക്ഷമതയും രണ്ടാമത്തെന്റെ കാര്യക്ഷമതയും തുല്യമായിരിക്കണമെന്നും ഇത് റിവേഴ്സിബിൾ സൈക്കിളിന്റെ സ്വഭാവം എന്തുതന്നെ ആയാലും അത് എത്ര നേരം റിവേഴ്സിബിൾ ആണോ അതിന്റെ കാര്യക്ഷമത എല്ലായ്പ്പോഴും തുല്യമായിരിക്കും ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഒരിക്കൽ നമ്മൾ രണ്ട് അന്തിമ താപനിലകൾ വ്യക്തമാക്കിയാൽ കാര്യക്ഷമത മാറില്ല സിസ്റ്റം എടുത്ത താപത്തിന്റെ അളവ് എന്ത് തന്നെ ആയാലും അല്ലെങ്കിൽ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരേ കാര്യക്ഷമത ലഭിക്കും അതായത് ഇത് TH TL എന്നീ രണ്ട് താപനിലകളുടെ ഒരു ഫങ്ക്ഷന് ആയിരിക്കണം ഈ രണ്ട് താപനിലകളും നിങ്ങൾ ഫിക്സ് ചെയ്തുകഴിഞ്ഞാൽ ഏതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത ഫിക്സഡ് ആയിരിക്കും അവിടെ നിന്ന് ഒരു തെർമോഡൈനാമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന ആശയം നമുക്ക് ലഭിക്കുന്നു കൂടാതെ ജൂൾ പോസ്റ്റുലേറ്റ് ഉപയോഗിച്ച് ഇത് കാണിക്കാൻ സാധിക്കും അതായത് താപ കൈമാറ്റത്തിന്റെ അനുപാതം നേരിട്ട് അനുബന്ധ താപനിലയുടെ അനുപാതത്തിന് തുല്യമാണ് അതനുസരിച്ച് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ കാർനോട്ട് സൈക്കിൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിവേർസിബിൾ ഹീറ്റ് എഞ്ചിൻ എന്നിവയുടെ കാര്യക്ഷമത നമുക്ക് ലഭിക്കുന്നു അത് അതിനാൽ ഒരിക്കൽ ഈ രണ്ട് താപനിലകളും അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവേർസിബിൾ ഹീറ്റ് എഞ്ചിന്റെ കാര്യക്ഷമത കണക്കാക്കാം റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകൾക്കും ഇതേ തത്ത്വം ബാധകമാണ് അതിനാൽ റിവേർസിബിൾ ഹീറ്റ് പമ്പിനുള്ള COP പോലെ ഏത് ഹീറ്റ് പമ്പിന്റെയും COP അറിയാം അതുപോലെ റിവേർസിബിൾ റഫ്രിജറേറ്ററിനുള്ള COP ഇതാണ് ഉദാഹരണത്തിന് TH 1000 K നും TL 300 K നും ഇടയിലുള്ള താപനിലകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീറ്റ് എഞ്ചിന്റെ സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ മറ്റൊന്നും അറിയാതെ നമുക്ക് ഈ റിവേർസിബിൾ ഹീറ്റ് എഞ്ചിന്റെ പരമാവധി കാര്യക്ഷമത അല്ലെങ്കിൽ ഈ രണ്ട് താപനിലകളും നമ്മൾ ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ തത്ത്വം പിന്തുടരാനുള്ള സാധ്യമായ പരമാവധി കാര്യക്ഷമത ഏത് ഹീറ്റ് എഞ്ചിനും നൽകാവുന്ന പരമാവധി കാര്യക്ഷമത ഇപ്രകാരം നല്കുന്നു അതിനാൽ ഈ രണ്ട് താപനിലകൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹീറ്റ് എന്ജിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന പരമാവധി കാര്യക്ഷമത അതാണ് എഞ്ചിൻ റിവേർസിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് 70 കാര്യക്ഷമത ലഭിക്കും എഞ്ചിൻ ഇറവെഴ്സിബിൾ ആണെങ്കിൽ നിങ്ങളുടെ കാര്യക്ഷമത വളരെ കുറവായിരിക്കും അത് എത്രത്തോളം കുറവായിരിക്കും അത് സിസ്റ്റത്തിൽ ഉള്ള ഇറവെർസിബിലിറ്റിയുടെ തോതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ നമ്മൾ ഒരു റഫ്രിജറേറ്ററിന്റെ ഉദാഹരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനാൽ ഞാൻ നിങ്ങൾക്ക് ഒരു റഫ്രിജറേറ്റർ നൽകുന്നു അത് ഇനി പറയുന്ന താപനിലകൾക്കിടയിൽ പ്രവർത്തിക്കുന്നു TL 280 K TH 300 K അപ്പോൾ ഈ റഫ്രിജറേറ്ററിന് സാധ്യമായ പരമാവധി COP അതിന്റെ റിവേർസിബിൾ പതിപ്പിന് സമാനമാണ് അതിനാൽ രണ്ട് താപനില പരിധികൾ നൽകി കഴിഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിൻ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുള്ള കാര്യക്ഷമതയുടെ ഉയർന്ന പരിധി അല്ലെങ്കിൽ COP നമുക്ക് ഈ രീതിയിൽ യഥാക്രമം കണക്കാക്കാം ഇപ്പോൾ ക്ലോസിയസ് അസമത്വം എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാന തത്ത്വം ഉരുത്തിരിയാൻ ഈ ആശയം ഉപയോഗിക്കാം ഇതിനായി നമ്മൾ ഒരു ഹീറ്റ് എഞ്ചിൻ പരിഗണിക്കുന്നു TH TL എന്നിവയാണ് രണ്ട് താപനിലകൾ നമുക്ക് ഹീറ്റ് എഞ്ചിൻ ഉണ്ട് അത് QH അളവിൽ താപം സ്വീകരിക്കുന്നു അത് QL അളവിൽ താപം നിരസിക്കുകയും W അളവിൽ വർക്ക് ഉല്പാദിപ്പിക്കുന്നു ഈ ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ ആകാം ഇറവെഴ്സിബിൾ ആകാം നമ്മൾ അത് കാര്യമാക്കുന്നില്ല ഇപ്പോൾ തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം ഈ സൈക്കിളിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നമുക്കറിയാം ഇപ്പോൾ അത് എടുക്കുന്ന താപത്തിന്റെ അളവ് QH QLW QH തീർച്ചയായും QL നേക്കാൾ ഉയർന്നതാണ് അല്ലാത്തപക്ഷം W ഉണ്ടാകില്ല അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ ക്വാണ്ടിറ്റി എടുക്കുന്നു ഇവിടെ T എന്നത് അബ്സൊല്യൂട്ട് താപനിലയാണ് അതിനാൽ ഇത് എല്ലായ്പ്പോഴും പോസിറ്റീവ് അളവാണ് അതിനാൽ ഇതിന്റെ ചിഹ്നം Q യുടെ ചിഹ്നത്തെ ആശ്രയിച്ചിരിക്കും QL നെഗറ്റീവ് ആയതിനാൽ നിങ്ങൾക്ക് 'QHTH QLTL' ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടു റിവേഴ്സിബിളിന് കാർനോട്ട് തത്ത്വം പിന്തുടർന്നാൽ നമുക്ക് പറയാൻ കഴിയും അതിനാൽ നമ്മൾ ആദ്യം അത് ഉപയോഗിക്കുകയാണെങ്കിൽ റിവേർസിബിൾ ഹീറ്റ് എഞ്ചിൻ നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ റിവേർസിബിൾ എന്നാൽ നമ്മൾ QL നെ QLrev ആയി സൂചിപ്പിക്കുന്നു തുടർന്ന് ഈ പ്രത്യേക തത്ത്വം ഉപയോഗിച്ച് അവ പുന ക്രമീകരിക്കുന്നതിലൂടെ നമുക്ക് എഴുതാം ഇപ്പോൾ നമ്മൾ ഒരു ഇറവെഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എടുക്കുന്നു അവിടെ QL QL irr ഇപ്പോൾ കാർനോട്ട് തത്വത്തിൽ നിന്നുള്ള വർക്ക് ഔട്ട്പുട്ടിൽ നിന്നും നമുക്കറിയാം ഈ സാഹചര്യത്തിൽ വർക്ക് ഔട്ട്പുട്ട് റിവേഴ്സിബിളിനെക്കാൾ കുറവായിരിക്കുമെന്ന് അതായത് QH അതേപടി തുടരുകയാണെങ്കിൽ അതിനർത്ഥം അതായത് താപത്തിന്റെ വലിയ ഒരു അംശം നിരസിക്കപ്പെടും കുറച്ചു ഭാഗം മാത്രമേ വർക്കിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയുള്ളൂ അതിനാൽ നമ്മൾ ഇപ്പോൾ എടുത്താൽ അതിനർത്ഥം അതിനാൽ നമ്മൾ ഈ പ്രത്യേക ഒന്നിനെ റിവേഴ്സിബിളിനായിട്ടും ഇതിനെ ഇറവെഴ്സിബിളിനായിട്ടും സംയോജിപ്പിച്ചാൽ നമുക്ക് ഇതിനെ ഒരുമിച്ച് എഴുതാം ഇവിടെ റിവേർസിബിൾ ചെയ്യാവുന്ന ഒന്നിന് തുല്യത പരിമിതപ്പെടുത്തുന്നു ഒരു ഹീറ്റ് പമ്പ് സൈക്കിളിനും സമാനമായത് തെളിയിക്കാൻ കഴിയും ഒരു ഹീറ്റ് പമ്പിനായി മാത്രം നിങ്ങൾ ഇത് നേടാൻ പോകുകയാണ് ഈ പ്രത്യേക സാഹചര്യം നമ്മൾ ഹീറ്റ് എഞ്ചിനായി ഡിറൈവ് ചെയ്തത് പോലെ നമ്മൾ ഹീറ്റ് പമ്പിനായി സമാനമായത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നിരുന്നാലും അതിനാൽ നമുക്ക് നിഗമനത്തിൽ എത്താം ഏതെങ്കിലും തരത്തിലുള്ള സിസ്റ്റത്തിന് ഹീറ്റ് എഞ്ചിനുകൾ അല്ലെങ്കിൽ റിവേഴ്സ്ഡ് ഹീറ്റ് എഞ്ചിനുകൾ റിവേഴ്സിബിൾ അല്ലെങ്കിൽ ഇറവെർസിബിൾ നമുക്ക് എല്ലായ്പ്പോഴും എഴുതാം ഇതിനെ ക്ലോസിയസ് അസമത്വം എന്ന് വിളിക്കുന്നു ഇത് നമ്മോടൊപ്പം എൻട്രോപ്പി എന്ന ആശയം ഉൾക്കൊള്ളുന്നു അതിനാൽ എൻട്രോപ്പി എന്ന ആശയം ചർച്ചചെയ്യാൻ ഈ പ്രത്യേക പ്രക്രിയ 'a' നെ തുടർന്ന് 1 മുതൽ 2 വരെ പോയിന്റിലേക്ക് നീങ്ങുന്ന ഒരു പ്രോപ്പർട്ടി ഡയഗ്രം വീണ്ടും ഹ്രസ്വമായി പരിഗണിക്കാം അതിനു ശേഷം 'b' പ്രക്രിയയെ തുടർന്ന് 2 മുതൽ 1 വരെ തിരികെ പോകാം ഇത് ഒരു റിവേർസിബിൾ സൈക്കിളാണെന്ന് നമുക്ക് പറയാം അതായത് 'a' 'b' എന്നിവ റിവേർസിബിൾ പ്രക്രിയകളാണ് ക്ലോഷ്യസ് അസമത്വം പിന്തുടർന്ന് നമ്മൾ അത് ഡിറൈവ് ചെയ്തു അതിനർത്ഥം ഇപ്പോൾ സമാനമായ മറ്റൊരു സൈക്കിൾ പരിഗണിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അതെ രണ്ട് അന്തിമ പോയിന്റുകളായ 1 2 എന്നിവയും ഒരേ പ്രക്രിയയായ 'a' ഉം ഉണ്ട് അതായത് 1 മുതൽ 2 വരെ നമ്മൾ അതേ പ്രക്രിയ a പിന്തുടരുന്നു എന്നിരുന്നാലും മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ഇതുപോലുള്ള മറ്റൊരു റൂട്ടിലാണ് പോകുന്നത് ഇത് വീണ്ടും റിവേഴ്സിബിൾ പ്രക്രിയയാണ് അതിനാൽ ആദ്യ കേസിൽ നമുക്ക് 'a' 'b' എന്നിവ ഉൾക്കൊള്ളുന്ന റിവേർസിബിൾ സൈക്കിൾ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കേസിൽ നമുക്ക് 'a' 'c' എന്നിവ അടങ്ങിയ റിവേർസിബിൾ സൈക്കിൾ ഉണ്ടായിരുന്നു അതിനാൽ ഈ സാഹചര്യത്തിലും നമുക്ക് ക്ലോസിയസ് അസമത്വം ഉപയോഗിക്കാം അതനുസരിച്ച് നമുക്ക് എഴുതാം അതിനാൽ ഇവ രണ്ടും താരതമ്യം ചെയ്താൽ രണ്ട് സാഹചര്യങ്ങൾക്കും സൈക്ലിക് ഇന്റഗ്രൽ സമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഈ രീതിയിൽ 2 മുതൽ 1 വരെ തിരികെ പോകാനുള്ള ഏത് പ്രക്രിയയും നമുക്ക് തിരഞ്ഞെടുക്കാം അത് റിവേഴ്സിബിൾ ആകുന്നിടത്തോളം കാലം ഈ സൈക്ലിക് ഇന്റഗ്രൽ മൂല്യം അതേപടി തുടരും അതിനാൽ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് തീർച്ചയായും സൂചിപ്പിക്കുന്നത് ഈ ക്വാണ്ടിറ്റിയിൽ ഉള്ള മാറ്റമോ അതിന്റെ വ്യാപ്തിയോ പിന്തുടർന്ന പ്രോസസ് പാതയെ ആശ്രയിക്കുന്നില്ല അതായത് പ്രോസസ് പാത എന്തുതന്നെ ആയാലും നമ്മൾ 2 മുതൽ 1 വരെ ഉള്ളതിനെ പിന്തുടരുന്നു അത് റിവേഴ്സിബിൾ ആകുന്നിടത്തോളം ഈ അളവ് അതേപടി തുടരും അതിനാൽ അത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം കൂടാതെ ചില ക്വാണ്ടിറ്റിയുടെ സൈക്ലിക് ഇന്റഗ്രൽ 0 ആയിരിക്കണമെന്ന് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ അത് ഒരു പ്രോപ്പർട്ടി ആയിരിക്കണമെന്നും ആ പ്രോപ്പർട്ടിയെ എൻട്രോപ്പി എന്നും വിളിക്കുന്നു അതിനെ സാധാരണയായി S എന്ന ചിഹ്നം കൊണ്ട് സൂചിപ്പിക്കുന്നു അതിനാൽ പ്രോപ്പർട്ടിയിലെ മാറ്റത്തെ S1 S2 എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഏതെങ്കിലും പ്രോപ്പർട്ടിയിലെ മാറ്റം dS ഇനിപ്പറയുന്ന രീതിയിൽ നിർവചിച്ചിരിക്കുന്നു റിവേഴ്സിബിൾ പാത പിന്തുടരുന്നു നിങ്ങൾ ഒരു റിവേഴ്സിബിൾ പാത പിന്തുടരുന്നിടത്തോളം കാലം ഈ δQ T എന്ന ഈ അളവ് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലെ മാറ്റം നൽകും എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഒരു സ്റ്റേറ്റ് പോയിന്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ് പോയിന്റിലേക്ക് അതായത് 1 മുതൽ 2 അല്ലെങ്കിൽ 2 മുതൽ 1 വരെ പോകുന്നു അതിനാൽ നിങ്ങൾ റിവേഴ്സിബിൾ പാത അല്ലെങ്കിൽ ഇറവെഴ്സിബിൾ പാത പരിഗണിക്കാതെ തന്നെ എൻട്രോപ്പിയിലെ മാറ്റം എല്ലായ്പ്പോഴും സമാനമായിരിക്കും കാരണം നിങ്ങൾ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് ആണ് സംസാരിക്കുന്നത് എന്നിരുന്നാലും എൻട്രോപ്പിയിലെ ആ മാറ്റത്തിന്റെ വ്യാപ്തി നിങ്ങൾ റിവേർസിബിൾ പാത പിന്തുടരുകയാണെങ്കിൽ മാത്രമേ ആ പ്രോപ്പർട്ടിയുടെ വ്യാപ്തി താപ കൈമാറ്റ മൂല്യം ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയൂ പോയിന്റ് 1 നും 2 നും ഇടയിൽ നമ്മൾ രണ്ട് പ്രക്രിയകൾ ആസൂത്രണം ചെയ്ത ഈ ഉദാഹരണം എടുക്കുക ഇപ്പോൾ 1 മുതൽ 2 വരെ എൻട്രോപ്പിയിലെ മാറ്റം പോയിന്റ് 3 മുതൽ പോയിന്റ് 7 വരെയാണ് അതിനാൽ ΔS എൻട്രോപ്പിയിലെ മാറ്റം ഇപ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇറവെർസിബിൾ പ്രക്രിയ പിന്തുടരുകയാണെങ്കിൽആ സാഹചര്യത്തിലും എൻട്രോപ്പിയിലെ മാറ്റം അതേപടി തുടരും കാരണം നിങ്ങൾ വീണ്ടും അതേ പ്രാരംഭ അവസ്ഥയിൽ നിന്ന് അതേ അന്തിമ അവസ്ഥയിലേക്ക് പോകുന്നു അതിനാൽ എൻട്രോപ്പിയിലെ മാറ്റം അവിടെയും 0 4 kJK ആയി തുടരും എന്നിരുന്നാലും ആദ്യ കേസിൽ നമ്മൾ ഒരു റിവേഴ്സിബിൾ പാത പിന്തുടരുന്നതിനാൽ ഈ സാഹചര്യത്തിൽ എൻട്രോപ്പിയിലെ മാറ്റം ഇപ്രകാരമായിരിക്കും എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ അതിനാൽ നമ്മൾ ഒരു റിവേർസിബിൾ പാത പിന്തുടരുകയാണെങ്കിൽ താപനിലയും എൻട്രോപ്പിയും രണ്ട് അക്ഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു TS ഡയഗ്രാമിൽ നമ്മൾ അത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പ്രത്യേക കർവിന് കീഴിലുള്ള വിസ്തീർണ്ണം അതായത് ഈ ഷേഡുള്ള ഭാഗം അതിൽ ഉൾപ്പെടുന്ന താപ കൈമാറ്റത്തിന്റെ അളവ് നിങ്ങൾക്ക് നൽകും എന്നിരുന്നാലും ഇറവെഴ്സിബിൾ പാതയ്ക്ക് അത് ശരിയല്ല അതിനാൽ റിവേർസിബിൾ പാത പിന്തുടർന്ന് ഈ 'δQT' ന്റെ വ്യാപ്തിയായ ഈ പ്രത്യേക ബന്ധത്തെ തൃപ്തിപ്പെടുത്തുന്ന പ്രോപ്പർട്ടി ആയി എൻട്രോപ്പിയെ നിർവചിക്കാം ഇപ്പോൾ മറ്റൊരു സൈക്കിൾ നമ്മൾ പരിഗണിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഒരു ഇറവെഴ്സിബിൾ സൈക്കിൾ ആണ് ഒരു ഇറവെഴ്സിബിൾ പ്രക്രിയയും ഒരു റിവേർസിബിൾ പ്രക്രിയയും ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ പ്രോസസ്സ് 1 മുതൽ 2 വരെ ഇറവെഴ്സിബിൾ ആണ് വാസ്തവത്തിൽ അത് റിവേർസിബിൾ ആകാം പക്ഷേ 2 മുതൽ 1 വരെ പ്രോസസ്സ് ആന്തരികമായി റിവേർസിബിൾ ആണ് ഇപ്പോൾ നമ്മൾ ക്ലോഷ്യസ് അസമത്വം ഇതിൽ പ്രയോഗിക്കുന്നു 1 മുതൽ 2 വരെ റിവേഴ്സിബിൾ ആണെങ്കിൽ സമത്വം നിലനിർത്താൻ കഴിയും അല്ലാത്തപക്ഷം അത് പൂജ്യത്തേക്കാൾ കുറവായിരിക്കും അതിനാൽ നമ്മൾ ഇപ്പോൾ ഇത് എഴുതുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഔപചാരികമായി എഴുതുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സിബിൾ പാത പിന്തുടരുന്നിടത്തോളം കാലം തുല്യത നിലനിർത്തുകയും എൻട്രോപ്പിയിലെ മാറ്റം ഈ 'δQT' എന്ന അളവുമായി നേരിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം എന്നിരുന്നാലും നമ്മൾ ഇറവെർസിബിൾ പാത പിന്തുടരുകയാണെങ്കിൽ 'δQT' മാത്രം പര്യാപ്തമല്ല നമുക്ക് മറ്റ് ചില സംഭാവന ആവശ്യമാണ് നമ്മൾ അത് ഡിഫറെൻഷ്യൽ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ അതിനാൽ അനൌപചാരികമായി ഈ അസമത്വ ചിഹ്നം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഇത് എഴുതാം ഇത് എൻട്രോപ്പി ജനറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇറവെഴ്സിബിൾ പ്രക്രിയയിൽ എൻട്രോപ്പിയിലെ മാറ്റം ഈ പദവുമായി പൂർണ്ണമായും ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ എൻട്രോപ്പി ജനറേഷനിൽ നിന്ന് ചില അധിക സംഭാവനകൾ ലഭിക്കും ഇത് യഥാർത്ഥത്തിൽ സിസ്റ്റത്തിനുള്ളിൽ ഉള്ള എല്ലാ ഇറവെഴ്സിബിലിറ്റികളുടെയും ഫലമാണ് ഒരു റിവേഴ്സിബിൾ പ്രക്രിയയ്ക്കായി ഈ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല അതായത്δSgen എന്നിരുന്നാലും നമ്മൾ ഒരു ഇറവെർസിബിൾ പ്രക്രിയ പിന്തുടരുമ്പോൾ ഈ എൻട്രോപ്പി ജനറേഷൻ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മാത്രമല്ല എൻട്രോപ്പി തത്വത്തിലെ വർദ്ധനവ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണിത് അതിനാൽ നമ്മൾ ഒരു റിവേർസിബിൾ പ്രക്രിയയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിലും എൻട്രോപ്പി ജനറേഷൻ ഇല്ല എന്നിരുന്നാലും എൻട്രോപ്പി ജനറേഷൻ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് പദമാണ് റിവേർസിബിൾ പ്രോസസ്സിന്റെ പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അത് 0 ആകാം അതിനാൽ ഏത് യഥാർത്ഥ പ്രക്രിയയിലും സിസ്റ്റത്തിന്റെ എൻട്രോപ്പി അല്ലെങ്കിൽ സിസ്റ്റം സറൌണ്ടിങ് കോമ്പിനേഷന്റെ എൻട്രോപ്പി എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കും അതിനാൽ ഇത് നമ്മളുടെ സിസ്റ്റമാണ് പുറത്ത് നമുക്ക് സറൌണ്ടിങ് ഉണ്ട് ഈ സമയത്ത് സിസ്റ്റത്തിൽ നിന്ന് സറൌണ്ടിങ്ങിലേക്ക് δQ അളവിൽ താപം നീങ്ങുന്നു അതിനാൽ T1 സിസ്റ്റത്തിന്റെ താപനിലയാണെന്ന് കരുതുക T2 സറൌണ്ടിങ് താപനിലയാണ് അപ്പോൾ സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയിലെ മാറ്റം എത്രയായിരിക്കും അത് തുല്യമായിരിക്കും സറൌണ്ടിങിലെ എൻട്രോപ്പി മാറ്റം ഇപ്രകാരമായിരിക്കും ഇവിടെ δQ പോസിറ്റീവ് ആണ് സിസ്റ്റത്തിന് കാരണം ഇത് താപം സ്വീകരിക്കുന്നു പക്ഷേ ഇത് സറൌണ്ടിങ്ങിന് നെഗറ്റീവ് ആണ് ഇപ്പോൾ T1 T2 അല്ലെങ്കിൽ T1 T2 എന്ന് പരിമിതപ്പെടുത്തുന്ന സാഹചര്യമാണെങ്കിൽ നെറ്റ് എൻട്രോപ്പി ജനറേഷൻ എത്രയാണ് ഇവ രണ്ടും സംയോജിപ്പിച്ചാൽ dSnet നെറ്റ് എൻട്രോപ്പി ജനറേഷൻ അല്ലെങ്കിൽ നെറ്റ് എൻട്രോപ്പി എക്സ്ചേഞ്ച് ഇവിടെ ഇപ്പോൾ ഹീറ്റ് സറൌണ്ടിങ്ങിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് കൈമാറുന്നതിനാൽ T2 T1 നെക്കാൾ വലുതായിരിക്കണം അതുവഴി ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആകും പരിമിതപ്പെടുത്തുന്ന സാഹചര്യത്തിൽ T1 T2 എന്നിവ തുല്യമാകുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഐസോതെർമൽ താപ കൈമാറ്റത്തെക്കുറിച്ചാണ് ആദ്യത്തെ ക്വാണ്ടിറ്റി 0 ലേക്ക് പോകുന്നു എന്നിരുന്നാലും ഈ മുഴുവൻ ക്വാണ്ടിറ്റിയും എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ് അതുവഴി എൻട്രോപ്പിയിലെ ഈ നെറ്റ് ചേഞ്ച് 0 നേക്കാൾ കൂടുതലാണ് ഇതിനെയാണ് നാം എൻട്രോപ്പി തത്വത്തിന്റെ വർദ്ധനവ് എന്ന് വിളിക്കുന്നത് അതായത് സിസ്റ്റം സറൌണ്ടിങ് സംയോജനത്തിന്റെ എൻട്രോപ്പി അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് തെർമോഡയനാമിക്സ് പദത്തിൽ ഔപചാരികമായി നമ്മൾ പറയുന്നത് ഇത് എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം എൻട്രോപ്പി എല്ലായ്പ്പോഴും കുറയുന്നു പക്ഷേ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് സിസ്റ്റത്തെക്കുറിച്ച് മാത്രമല്ല സറൌണ്ടിങ്ങിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് സിസ്റ്റം സറൌണ്ടിങ് കോമ്പിനേഷനെക്കുറിച്ചാണ് നമ്മൾ അതിനെ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ എൻട്രോപ്പി ജനറേഷൻ കാരണം യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എല്ലായ്പ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് ചില സുപ്രധാന നിഗമനങ്ങളിൽ എത്തിച്ചേരാം • ആദ്യം യഥാർത്ഥ പ്രക്രിയകൾ ഒരു നിശ്ചിത ദിശയിൽ മാത്രമേ സംഭവിക്കൂ അത് ഒരു പോസിറ്റീവ് എൻട്രോപ്പി ജനറേഷന് അല്ലെങ്കിൽ പരിമിതപ്പെടുത്താവുന്ന സന്ദർഭത്തിൽ റിവേർസിബിൾ പ്രോസസ്സിനായി സീറോ എൻട്രോപ്പി ജനറേഷന് നൽകുന്നു നെഗറ്റീവ് എൻട്രോപ്പി ജനറേഷൻ ഒരിക്കലും സാധ്യമല്ല അതിനാൽ ഏതെങ്കിലും സാങ്കൽപ്പിക തെർമോഡൈനാമിക് പ്രക്രിയ അത് നെഗറ്റീവ് എൻട്രോപ്പി ജനറേഷൻ സൂചിപ്പിക്കുന്നെങ്കിൽ അത് അസാധ്യമാണ് • രണ്ടാമതായി ഇവിടെ ഈ അസമത്വങ്ങളുടെ സാന്നിധ്യം കാരണം എൻട്രോപ്പി ഒരു സംരക്ഷിക്കാൻ കഴിയാത്ത പ്രോപ്പർട്ടി ആണ് ഇവിടെ ഈ അസമത്വത്തിന്റെ സാന്നിധ്യം ഉള്ളതിനാൽ അതിനാൽ എൻട്രോപ്പി എന്നത് സംരക്ഷിക്കാൻ കഴിയാത്ത പ്രോപ്പർട്ടി ആണ് അതിനാൽ എൻട്രോപ്പിയുടെ സംരക്ഷണം പോലെ ഒന്നില്ല നമ്മൾ മാസ് മൊമെൻറ്റം ഊർജ്ജം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ എൻട്രോപ്പിയുടെ സംരക്ഷണത്തെക്കുറിച്ചില്ല ഈ എൻട്രോപ്പി ജനറേഷൻ പദം ഉൾക്കൊള്ളുന്ന ഒരു എൻട്രോപ്പി ബാലൻസ് സമവാക്യം മാത്രമേ നമുക്ക് എഴുതാൻ കഴിയൂ എന്നാൽ എൻട്രോപ്പിയുടെ സംരക്ഷണം ഒരിക്കലും സാധ്യമല്ല • മൂന്നാമതായി ഇറവെഴ്സിബിലിറ്റീസിന്റെ സാന്നിദ്ധ്യം എഞ്ചിനീയറിംഗ് സിസ്റ്റങ്ങളുടെ പ്രകടനത്തെ തരംതാഴ്ത്തുന്നു മാത്രമല്ല അത്തരം ഇറവെർസിബിലിറ്റീസ് അളക്കാൻ ഈ എൻട്രോപ്പി ജനറേഷൻ ഒരു ആശയം നൽകുന്നു ഈ മൂന്നാമത്തെ പോയിന്റിനെക്കുറിച്ച് കൂടുതൽ അർത്ഥമാക്കുന്നത് എൻട്രോപ്പി ജനറേഷൻ എന്ന ആശയം ഉപയോഗിച്ച് ഇറവെർസിബിലിറ്റീസ് എങ്ങനെ കണക്കാക്കാമെന്നതാണ് അടുത്ത പ്രഭാഷണത്തിൽ നാം എക്സ്ർജിയെ കുറിച്ച് സംസാരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു കണക്കുകൂട്ടൽ നടത്താം ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് സാഹചര്യങ്ങളെ അവതരിപ്പിക്കുന്നു 'a' എന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു സോഴ്സ് ഉണ്ട് അതിന്റെ താപനില 800 K ആണ് സിങ്ക് 500 K താപനിലയിൽ ആണ് 2000 kJ ഹീറ്റ് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ കേസ് നമ്പറായ 'a' യുടെ എൻട്രോപ്പി കൈമാറ്റം എത്രയാണ് അതിനാൽ കേസ് നമ്പർ 'a' യുടെ ഹീറ്റ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട എൻട്രോപ്പി കൈമാറ്റം ഇനിപ്പറയുന്നതായിരിക്കും അതിനാൽ നിങ്ങൾ δQ കോമൺ എടുക്കുകയാണെങ്കിൽ ഇത് സമാനമാണ് അതിനാൽ ഞാൻ അക്കങ്ങൾ കണക്കാക്കിയിട്ടില്ല പക്ഷേ 0 അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലളിതമാക്കാൻ ശ്രമിക്കാം അതിനാൽ എനിക്ക് 20 ഉണ്ട് ഞാൻ യൂണിറ്റ് അവസാനം ഇടണം അത് കിലോ ജൂൾ പെർ കെൽവിൻ ആണ് അതിനാൽ ഇത് ഇപ്പോൾ കേസ് 'b' യിൽ അതിനാൽ അത് കോമൺ എടുക്കുന്നു ഞാൻ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ അതിനാൽ ഇത് അതിനാൽ എന്റെ പക്കൽ ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ഇല്ലാത്തതിനാൽ നിങ്ങൾ ഇത് കണക്കാക്കുക എന്നാൽ നിങ്ങൾ ഇത് കണക്കുകൂട്ടുക തീർച്ചയായും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മൂല്യം മുൻ കേസുകളേക്കാൾ കുറവായിരിക്കുമെന്ന് നമ്മൾ പറയുന്നു അതിനാൽ തീർച്ചയായും രണ്ടാമത്തെ സാഹചര്യം കൂടുതൽ ഇറവെർസിബിൾ ആണ് കാരണം ഇവിടെ ഇത് കൂടുതൽ ഇറവെർസിബിൾ ആണ് കാരണം ഇവിടെയുള്ള താപനില വ്യത്യാസം 300 K ആണ് എന്നാൽ ഇവിടെ ഇത് 50 K മാത്രമാണ് അതിനാൽ വളരെ കുറഞ്ഞ താപനില വ്യത്യാസവും അതിനാൽ ബാഹ്യ ഇറവെർസിബിലിറ്റിയുടെ അളവ് വളരെ കുറവാണ് ആദ്യത്തേതിൽ 300 K താപനില വ്യത്യാസത്തിൽ താപ കൈമാറ്റം നടക്കുന്നു രണ്ടാമത്തെ കേസിൽ 50 K മാത്രമേയുള്ളൂ അതിനാൽ ഈ അളവിലുള്ള താപ കൈമാറ്റം അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇറവെർസിബിലിറ്റിയുടെ അളവ് കുറവാണ് അതിനാൽ അടുത്ത ആഴ്ചയിൽ തന്നെ ഇനിപ്പറയുന്ന പ്രഭാഷണങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട എൻട്രോപ്പി ഉൾപ്പെടുന്ന പ്രോപ്പർട്ടി റിലേഷൻസ് വേഗത്തിൽ പരിശോധിക്കും അതിനാൽ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തെക്കുറിച്ചാണ് തുടർന്ന് അത് നിശ്ചലമാണെന്ന് നമ്മൾ കരുതുന്നു തുടർന്ന് ഒരു സിമ്പിൾ കംപ്രസിബിൾ സിസ്റ്റം നമ്മൾ പരിഗണിക്കുന്നു കാരണം ഗുരുത്വാകർഷണം കാന്തികത വൈദ്യുതി മുതലായ അധിക പ്രഭാവം ഉണ്ടാകാതിരിക്കാൻ കൂടാതെ ആന്തരികമായി റിവേഴ്സിബിൾ ആകാവുന്ന ഒരു പ്രക്രിയയും നമ്മൾ പരിഗണിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇതിനായി തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം എഴുതുകയാണെങ്കിൽ നമുക്ക് dU എഴുതാം കാരണം ഇത് ഒരു നിശ്ചല സിസ്റ്റമാണ് അതിനാൽ dU ഇങ്ങനെ എഴുതാം du δQ − δW ഇപ്പോൾ എൻട്രോപ്പിയുടെ നിർവ്വചനത്തിൽ നിന്നും നമ്മൾ ആന്തരികമായി റിവേഴ്സിബിൾ ആകാൻ കഴിയുന്ന ഒരു പ്രക്രിയയെ കൈകാര്യം ചെയ്യുന്നു അതിനാൽ δQ നെ TdS എന്നും ഒപ്പം സിമ്പിൾ കംപ്രസ്സബിൾ പദാർത്ഥത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ δW നെ PdV എന്ന് എഴുതാൻ കഴിയും അതായത് നമുക്ക് എഴുതാൻ കഴിയും TdS dU PdV അല്ലെങ്കിൽ എല്ലാം മാസ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എഴുതാം Tds du Pdv ഇതിനെ ആദ്യത്തെ TdS സമവാക്യം അല്ലെങ്കിൽ ഗിബ്സ് സമവാക്യം എന്ന് വിളിക്കുന്നു വീണ്ടും നമുക്കറിയാം h u Pv അഥവാ dh du Pdv vdP അതിനാൽ മുമ്പത്തെ TdS സമവാക്യത്തിൽ അത് ഉപയോഗിച്ചാൽ നമുക്ക് എഴുതാം TdS du Pdv ഇവിടെ du Pdv നെ dh - vdP ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ സമവാക്യം ഇപ്രകാരമായിരിക്കും TdS dh - vdP അതിനാൽ ഇത് രണ്ടാമത്തെ TdS സമവാക്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ഗിബ്സ് സമവാക്യം ആണ് ഇവ രണ്ടും വളരെ പ്രധാനപ്പെട്ട സമവാക്യങ്ങളാണ് നിങ്ങൾ ചെയ്ത വ്യവസ്ഥകൾ ഓർമ്മിക്കുക ക്ലോസ്ഡ് സ്റ്റേഷണറി സിസ്റ്റം സിമ്പിൾ കംപ്രസ്സബിൾ ഇന്റെർണലി റിവേഴ്സിബിൾ എന്നിവ നമ്മൾ പരിഗണിച്ചു ആ സാഹചര്യത്തിൽ നമുക്ക് എൻട്രോപ്പിയുമായി പ്രോപ്പർട്ടികളും ആന്തരിക ഊർജ്ജവും എന്തൽപിയും ബന്ധിപ്പിക്കാൻ കഴിയും അതുവഴി എൻട്രോപ്പി അളക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമായി ഇത് നൽകുന്നു കാരണം ആദ്യത്തെ സമവാക്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എഴുതാം രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം അതിനാൽ നമ്മൾ സംസാരിക്കുന്ന പദാർത്ഥങ്ങൾ തമ്മിലുള്ള PVT ബന്ധം നമുക്കറിയാമെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് u അല്ലെങ്കിൽ h ഏത് താപനിലയുമായി ബന്ധപ്പെടുത്താൻ കഴിയുമെങ്കിൽ എൻട്രോപ്പിയിലെ മാറ്റം നമുക്ക് കണക്കാക്കാം ഒരു ഐഡിയൽ വാതകത്തിന്റെ ഉദാഹരണം നോക്കാം അതിനാൽ നമ്മൾ ഇപ്പോൾ എഴുതിയ സമവാക്യമാണിത് അതിനാൽ ഐഡിയൽ വാതകത്തിനായി നിങ്ങൾക്ക് എന്തറിയാം നമുക്കറിയാം Pv RT ഐഡിയൽ വാതകത്തിനും നമുക്ക് എഴുതാം du Cv dT ഒപ്പം dh C dT നിങ്ങൾ ഇതിനകം ഈ ബന്ധം ഉപയോഗിച്ചിരിക്കാം പക്ഷേ അടുത്ത ആഴ്ച നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഞാൻ വീണ്ടും വികസിപ്പിക്കും തൽക്കാലം നിങ്ങൾ ഇത് നിസ്സാരമായി കാണുക അതിനാൽ നിങ്ങൾ ഇത് ആദ്യ സമവാക്യത്തിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഇവിടെ 'PT' എന്നത് 'Rv' ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം അതിനാൽ 'R dv v' അതിനർത്ഥം അതുപോലെ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്ക് എഴുതാം ഇവിടെ 'vT' യെ മാറ്റിസ്ഥാപിച്ചത് 'dpP' കൊണ്ട് ആണ് ഇത് നമുക്ക് രണ്ടാമത്തെ സമവാക്യം നൽകുന്നു അത് ഇപ്രകാരമാകുന്നു അതിനാൽ ഇത് നമ്മുടെ സമവാക്യ നമ്പർ 1 ആണ് ഇത് സമവാക്യ നമ്പർ 2 ആണ് നിങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മർദ്ദത്തിൽ ഉള്ള മാറ്റവും Cp യെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്കറിയാമെങ്കിൽ നമ്മൾ രണ്ടാമത്തേത് ഉപയോഗിക്കുന്നു Cv യെക്കുറിച്ചുള്ള വിവരങ്ങളും വോളിയത്തിലെയും മാറ്റവും അറിയാമെങ്കിൽ നമ്മൾ ആദ്യത്തേത് ഉപയോഗിക്കുന്നു രണ്ട് തരത്തിലുള്ള സമീപനങ്ങളുണ്ട് കാരണം Cp യും Cv യും സാധാരണയായി താപനിലയുടെ ഫങ്ക്ഷൻ ആണ് അതിനാൽ രണ്ട് സമീപനങ്ങളുണ്ട് ആദ്യത്തേതിനെ ഏകദേശ സമീപനം എന്ന് വിളിക്കുന്നു ഏകദേശ സമീപനത്തിൽ Cp യുടെയും Cv യുടെയും ശരാശരി മൂല്യം നമ്മൾ പരിഗണിക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു അതിനാൽ രണ്ടാമത്തേത് എടുക്കുകയാണെങ്കിൽ ഏകദേശ സമീപനമനുസരിച്ച് അവിടെ ഉണ്ടായിരിക്കും ഈ പ്രത്യേക സമവാക്യം പിന്തുടരുന്നു രണ്ടാമത്തെ സമീപനം എന്നത് കൃത്യമായ സമീപനമാണ് അവിടെ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ Cp യുടെ താപനില ആശ്രയത്വം പരിഗണിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇത് പ്രതിനിധീകരിക്കുന്നു ഇവിടെ ഏതെങ്കിലും പ്രത്യേക താപനിലയിൽ ഈ s0 ഇപ്രകാരമാണ് നിർവചിച്ചിരിക്കുന്നത് അതിനാൽ Cp യെ T യുടെ ഒരു ഫംഗ്ഷനായി നിങ്ങൾക്കറിയാമെങ്കിൽ ഒരുപക്ഷേ ഒരു പോളിനോമിയൽ സമവാക്യം ഒരുപക്ഷേ മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് ഈ ഇന്റഗ്രേഷൻ നടത്താനും s10 s20 എന്നിവയുടെ മൂല്യം ലഭിക്കുന്നതിന് 0 മുതൽ T വരെ ഇന്റഗ്രേറ്റ് ചെയ്യാനും കഴിയും നന്ദിയോടെ ഈ s0 ന്റെ സ്റ്റാൻഡേർഡ് മൂല്യങ്ങൾ ഏത് സ്റ്റാൻഡേർഡ് പാഠപുസ്തകങ്ങളിലും വ്യത്യസ്ത താപനിലക്കുള്ളത് ലഭ്യമാണ് നിങ്ങളുടെ പാഠപുസ്തകങ്ങളുടെ അനുബന്ധം നിങ്ങൾക്ക് റഫർ ചെയ്യാവുന്നതാണ് സെംഗൽ ആൻഡ് ബോലെസ് ന്റെ പുസ്തകം അല്ലെങ്കിൽ സോൺടാഗ് ന്റെ പുസ്തകം എന്നിവയിൽ നിങ്ങൾക്ക് ഈ s0 ന്റെ പട്ടിക ലഭിക്കും അതിനാൽ ദിവസം മുഴുവനും കൃത്യവും ഏകദേശവുമായ സമീപനത്തെ പിന്തുടർന്ന് ഈ എൻട്രോപ്പി കണക്കുകൂട്ടൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു കേസ് നമ്മൾ പരിശോധിക്കും അതിനാൽ നമ്മുടെ സാഹചര്യം എന്നത് വായു അതിന്റെ പ്രാരംഭ അവസ്ഥയിൽ നിന്ന് അന്തിമ അവസ്ഥയിലേക്ക് കംപ്രസ് ചെയ്യുന്നു എന്നതാണ് അതിനാൽ നമുക്ക് P1 100 kPaT1 290 K എന്നിവ നൽകിയിരിക്കുന്നു അതിനെ കംപ്രസ് ചെയ്യുന്നു 600 kPa ഫൈനൽ പ്രഷറിൽ P2 ഉം 330 K T2 ഉം യഥാർത്ഥത്തിൽ ഇത് നമ്മൾ സംസാരിക്കുന്ന വളരെ ചെറിയ താപനില പരിധിയാണ് അതിനാൽ ഐഡിയൽ വാതകമെന്ന് കരുതുന്ന വായുവിന്റെ എൻട്രോപ്പി മാറ്റം കണക്കാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ ഏകദേശ സമീപനം പിന്തുടരുകയാണെങ്കിൽ ഉദാഹരണത്തിന് കേസ് അപ്പോൾ നമ്മൾ Cp യുടെ ശരാശരി മൂല്യം തിരഞ്ഞെടുക്കണം നമുക്ക് വായുവിന്റെ ശരാശരി Cp 1 006 kJkgK എന്ന് എടുക്കാം ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ നമ്പറുകൾ ഇടാം ഒപ്പം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മൂല്യം 0 3842 kJkgK നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഇത് നെഗറ്റീവ് ആണ് അതിനർത്ഥം സിസ്റ്റത്തിന്റെ എൻട്രോപ്പി കുറയുന്നു ഇപ്പോൾ നമ്മൾ കൃത്യമായ സമീപനം പിന്തുടരുകയാണെങ്കിൽ ഉദാഹരണത്തിന് കേസ് അപ്പോൾ നമുക്ക് s0 ന്റെ മൂല്യം ആവശ്യമാണ് അതിനാൽ ഇവിടെ s0 എന്നതിനർത്ഥം 290 K ന്റെ അനുബന്ധ s0 മൂല്യം എന്നാണ് ഇത് ഒരു മികച്ച രീതിയിൽ എഴുതട്ടെ അതിനാൽ ഞാൻ ആ പട്ടികയിൽ നിന്ന് മൂല്യം എടുത്തു ഞാൻ പിന്നീട് നിങ്ങൾക്ക് പട്ടിക നൽകാം അതിനാൽ 290 K ന് സമാനമായ s0 മൂല്യം 1 66802 kJ kgK ഉം 330 K ന് സമാനമായ s0 മൂല്യം 1 79783 kJ kgK ആണ് അതിനാൽ നിങ്ങൾ ഇവ രണ്ടും കണക്കിലെടുക്കുകയാണെങ്കിൽ അതിനാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഡെറിവേഷൻ വളരെ ചെറുതാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം യഥാർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്നത് 40 K താപനില വ്യത്യാസത്തെക്കുറിച്ചാണ് എന്നിരുന്നാലും അതേ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കാം അന്തിമ താപനില T2 600 K ആണെന്ന് കരുതുക ഇത് ഉപയോഗിച്ച് സമാന പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക ഏകദേശ സമീപനവും കൃത്യമായ സമീപനവും പരക്കെ വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നുവെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും താപനിലയിലെ ചെറിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് സമീപനമാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഇത് കാണിക്കുന്നു നിർദ്ദിഷ്ട താപത്തിന്റെ ശരാശരി മൂല്യം കണക്കിലെടുത്ത് നമ്മൾ ഏകദേശ സമീപനത്തിനായി പോകുന്നു എന്നിരുന്നാലും പലതരം ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ഐസി എഞ്ചിൻ ആപ്ലിക്കേഷനുകൾ പോലെ താപനില വ്യതിയാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു അപ്പോൾ കൃത്യമായ വ്യതിയാനം സ്പെസിഫിക് താപമാണെന്ന് നാം പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ കൃത്യമായ സമീപനത്തിനായി നാം പോകേണ്ടതുണ്ട് താപനില വ്യത്യാസം 100 K ലും കുറവായി പരിമിതപ്പെടുത്തിയിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്നത് ഏകദേശ സമീപനം ആണ് അതിനാൽ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് അത് നമ്മെ കൊണ്ടുപോകുന്നു ഇവിടെ നമ്മൾ റിവേഴ്സിബിൾ പ്രക്രിയയെ കുറിച്ചും ഇറവെർസിബിൾ പ്രക്രിയയെ കുറിച്ചും സംസാരിച്ചു തുടർന്ന് റിവേർസിബിൾ സൈക്കിൾ കാർനോട്ട് സൈക്കിളിനൊപ്പം റിവേർസിബിൾ സൈക്കിളിന്റെ ഉദാഹരണമായി കണ്ടു പിന്നെ നമ്മൾ ക്ലോഷ്യസ് അസമത്വം ഡിറൈവ് ചെയ്തു അത് ഔദ്യോഗികമായി ഇപ്രകാരം ലഭിക്കുന്നു ഏത് തരത്തിലുള്ള സിസ്റ്റത്തിനും ഒരു റിവേർസിബിൾ പ്രക്രിയയുടെ പരിമിതപ്പെടുത്തൽ കേസിലേക്ക് തുല്യത നിലനിൽക്കുന്നു തുടർന്ന് എൻട്രോപ്പി എൻട്രോപ്പി ജനറേഷൻ എന്ന ആശയം നമ്മൾ അവതരിപ്പിച്ചു അതിനാൽ ഏത് പ്രക്രിയയിലും എൻട്രോപ്പിയിലെ മാറ്റം ഇപ്രകാരം എഴുതാമെന്ന് നമ്മൾ കണ്ടു ഒരു റിവേർസിബിൾ സാഹചര്യത്തിന് എൻട്രോപ്പി ജനറേഷൻ ഇല്ല തുടർന്ന് എൻട്രോപ്പിയിലെ മാറ്റം δQT യുമായി നേരിട്ട് ബന്ധപെടുത്താം ഒടുവിൽ നമ്മൾ TdS ബന്ധങ്ങളെക്കുറിച്ചും TdS ബന്ധങ്ങൾ ഉപയോഗിച്ച് എൻട്രോപ്പി എങ്ങനെ കണക്കാക്കാമെന്നും ഐഡിയൽ വാതകങ്ങളുടെ പ്രത്യേക കേസ് ചർച്ചചെയ്യുകയും ചെയ്തു അതിനാൽ ഇന്നത്തേക്ക് ഇത്ര മാത്രം ഈ ആഴ്ചയിലെ അവസാന പ്രഭാഷണത്തിൽ ഞാൻ സംസാരിക്കുന്നത് എക്സ്ർജിയും ലഭ്യമായ വർക്ക് എന്നീ ആശയത്തെക്കുറിച്ചാണ് അവിടെ നമ്മൾ ക്ലോസ്ഡ് ഓപ്പൺ സിസ്റ്റങ്ങളുടെ പൂർണമായ രണ്ടാമത്തെ നിയമ വിശകലനം നേടുന്നതിന് വേണ്ടി എൻട്രോപ്പി കണക്കുകൂട്ടൽ ആശയവും TdS ബന്ധങ്ങൾ ഇറവെഴ്സിബിലിറ്റി കണക്കുകൂട്ടലുകൾ എന്നിവ ഉപയോഗിക്കും അതുവരെ നിങ്ങൾ ഈ പ്രഭാഷണം റിവൈസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ദയവായി എനിക്ക് വീണ്ടും എഴുതുക